ആശംസകൾ ടെയിലിന്റെ മൊഡ്യൂൾ 2 യൂണിറ്റ് 7 ലേക്ക് സ്വാഗതം ടാർഗെറ്റുകൾ വിലയിരുത്തുന്നതിനും സജ്ജീകരിക്കുന്നതിനുമുള്ള സാങ്കേതികവിദ്യയെക്കുറിച്ചാണ് ഇത് അവസാന യൂണിറ്റിൽ നമ്മൾ അസ്സസ്സ്മെന്റിന്റെ സ്വഭാവം മനസ്സിലാക്കി ഡിസൈൻ ഘട്ടത്തിന്റെ ഉപ പ്രക്രിയകൾ നമ്മൾ തിരിച്ചറിഞ്ഞു അസസ്മെന്റിൽ സാങ്കേതികവിദ്യയുടെ സ്വഭാവവും പങ്കും മനസിലാക്കുക സിഒകൾ കൈവരിക്കുന്നതിന് ലക്ഷ്യങ്ങൾ എങ്ങനെ സജ്ജീകരിക്കാമെന്ന് മനസിലാക്കുക ഇവയാണ് ഈ യൂണിറ്റിന്റെ ഔട്കമുകൾ അസസ്മെന്റിനും ഇവാല്യുവേഷനുമുള്ള സാങ്കേതികവിദ്യ ഈ ദിവസങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു അസ്സസ്സ്മെന്റിന് അടുത്ത കാലം വരെ വിദ്യാർത്ഥികളിൽ നിന്ന് പ്രധാനമായും രേഖാമൂലമുള്ള പ്രതികരണങ്ങൾ ആവശ്യമാണ് ഇവാല്യുവേഷൻ ഇപ്പോഴും പ്രധാനമായും മാനുവലാണ് അതായത് അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ ക്രമീകരിക്കുക പ്രതികരണങ്ങൾ ശേഖരിക്കുക വിദ്യാർത്ഥികളുടെ ഈ പ്രതികരണങ്ങൾ വിലയിരുത്തുക എന്നത് ഫാക്കൽറ്റി സമയം കവരുന്ന ഒന്നാണ് ഇത് ചെറുതല്ലാത്ത ഒരു ഭാരം ഫാക്കൽറ്റികൾക്ക് നൽകുന്നു സർവകലാശാലാ സംവിധാനങ്ങളിൽ പോലും സർവകലാശാലയുടെ ഗണ്യമായ വിഭവങ്ങളും സമയവും അസ്സസ്സ്മെന്റ് വശങ്ങളിലേക്കോ അല്ലെങ്കിൽ സാധാരണയായി പരീക്ഷാ പ്രക്രിയകളിലേക്കോ നീക്കിവച്ചിരിക്കുന്നു അസസ്മെന്റിനും ഇവാല്യുവേഷനും നിരവധി സാങ്കേതികവിദ്യകൾ ലഭ്യമാണ് അത്തരം സാങ്കേതികവിദ്യകളുടെ ശരിയായ ഉപയോഗം കൊണ്ട് ഫാക്കൽറ്റി സമയം ഗണ്യമായി ലാഭിക്കാനും അസ്സസ്സ്മെന്റിന്റെ ഗുണനിലവാരം മികച്ചതാക്കാനും വിദ്യാർത്ഥികളുടെ പഠനവും ആഴത്തിലുള്ളതാണെന്ന് ഉറപ്പാക്കാനും കഴിയും സാങ്കേതികവിദ്യകളുടെ തിരഞ്ഞെടുപ്പ് കോഴ്സുകളുടെ സ്വഭാവം ഉള്ളടക്കം പ്രവേശനം ഫാക്കൽറ്റികളുടേയും വിദ്യാർത്ഥികളുടേയും സാങ്കേതികത ഉപയോഗിച്ച ഇൻസ്ട്രക്ഷനൽ രീതികൾ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന സിസ്റ്റം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഈ പോയിന്റുകൾ എല്ലാം അസസ്മെന്റിനും ഇവാല്യുവേഷനും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതികവിദ്യയെ സ്വാധീനിക്കുന്നു എണ്ണത്തിൽ വളരെ ചെറുതാണെങ്കിലും ഇപ്പോഴും ചില സ്ഥാപനങ്ങൾ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് എൽഎംഎസ് വാഗ്ദാനം ചെയ്യുന്ന അസ്സസ്സ്മെന്റ് ഇവാല്യുവേഷൻ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി കൂടാതെ ഫ്ലിപ്പ് ക്ലാസ് റൂമിലും ഓൺലൈൻ മോഡിലും കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ചിലപ്പോൾ ഒരു മിശ്രിത മോഡൽ ആകാം ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് ഓപ്പൺ സോഴ്സ് ഉപകരണങ്ങളോ സ്ഥാപനത്തിനായി വാങ്ങിയ കുത്തക ഉപകരണങ്ങളോ ആകാം ഫാക്കൽറ്റികളുടെ ലോഡ് കുറയുകയും വിലയിരുത്തലിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ അവയുടെ ഉപയോഗം കൂടുതൽ ജനപ്രിയമാവുകയാണ് ക്വിസുകൾ അധ്യാപകർ കൂടുതലായി ക്വിസുകൾ സമ്മേറ്റിവ് അസ്സസ്സ്മെന്റിനുള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നു പ്രത്യേകിച്ചും തുടർച്ചയായ കണ്ടിന്യുവസ് ഇന്റെർണൽ ഇവാല്യുവേഷൻ അല്ലെങ്കിൽ സിഐഇ യിൽ ക്വിസുകളുമായി ബന്ധപ്പെട്ട മാനുവൽ രീതികൾ അധ്യാപകർക്ക് സമയമെടുക്കുന്ന ഒന്നാണ് മറുവശത്ത് ഏതെങ്കിലും എൽഎംഎസും സ്മാർട്ട് ഫോണുകളുടെയോ ലാപ്ടോപ്പുകളുടെയോ സംയോജനം ഉപയോഗിച്ച് ക്വിസുകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് രൂപകൽപ്പന നടത്തൽ വിലയിരുത്തൽ ഫീഡ്ബാക്ക് നൽകൽ അതും വളരെ പ്രധാനമാണ് വളരെ ഫലപ്രദമായി ചെയ്യാനാകും ക്വിസുകൾ നടത്തുന്നതിന് ഓപ്പൺ സോഴ്സ് ഉപകരണങ്ങളും ലഭ്യമാണ് കൂടാതെലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾക്ക് വളരെ വേഗത്തിൽ പ്രതികരണങ്ങൾ നൽകാൻ കഴിയും ആളുകൾ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അസൈൻമെന്റുകൾ അസൈൻമെന്റുകളുമായി ബന്ധപ്പെട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആശയവിനിമയത്തിനായി നിരവധി കോളേജുകൾ സോഷ്യൽ മീഡിയയായ വാട്ട്സ്ആപ്പ് എൽഎംഎസ് എന്നിവ ഉപയോഗിക്കാൻ തുടങ്ങി സമർപ്പിക്കേണ്ട തീയതിയും സമയവും വാട്ട്സ്ആപ്പ് വഴി അറിയിക്കുന്നു കോഴ്സിനായി ഒരു പ്രത്യേക ഗ്രൂപ്പ് സൃഷ്ടിക്കുകയും വിദ്യാർത്ഥികളും ഫാക്കൽറ്റികളും ഈ ഗ്രൂപ്പിലെ അംഗങ്ങളാവുകയും ചെയ്യുന്നു അതിനാൽ സമർപ്പിക്കേണ്ട തീയതിയും സമയവും ഏതെന്ന് അത്തരമൊരു ഗ്രൂപ്പിലൂടെ ആശയവിനിമയം നടത്താം അസൈൻമെന്റ് ഗ്രൂപ്പ് മെയിലുകളിലൂടെയോ വാട്ട്സ്ആപ്പ് വഴിയോ വീണ്ടും അയക്കാൻ സാധിക്കുന്നു കൂടാതെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്മാർട്ട്ഫോണുകളിൽ നിന്നുള്ള ക്യാമറ ഇമേജുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വാചകം ഫോണിൽ തന്നെ ടൈപ്പുചെയ്തിട്ടുണ്ടെങ്കിലോ ബന്ധപ്പെട്ട വേഡ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു PDF പ്രമാണം നേരിട്ട് പങ്കിടുന്നതിലൂടെയോ അസൈൻമെന്റുകളിലേക്ക് അവരുടെ പ്രതികരണങ്ങൾ സമർപ്പിക്കാൻ കഴിയും വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്താനും വ്യക്തിഗത ഫീഡ്ബാക്ക് നൽകാനും LMS ഫലപ്രദമായി ഉപയോഗിക്കാം അത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഫാക്കൽറ്റികൾക്ക് ഭാരം കുറയ്ക്കുക മാത്രമല്ല വിദ്യാർത്ഥികളിൽ കൂടുതൽ താൽപ്പര്യമുണ്ടാക്കുകയും ചെയ്യും ടെസ്റ്റുകൾ ടെസ്റ്റുകളുടെ കാര്യത്തിൽ രൂപകൽപ്പന നടത്തൽ വിലയിരുത്തൽ വിദ്യാർത്ഥികൾക്ക് ഫീഡ്ബാക്ക് നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ ടെസ്റ്റുകളിൽ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ഇതിന് ചില മുൻവ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു ഇനം ബാങ്ക് ശരിയായി ടാഗുചെയ്ത ടെസ്റ്റ് ഇനങ്ങളുടെ ശേഖരം പിന്നീടുള്ള ഒരു യൂണിറ്റിൽ നമ്മൾ ഈ ഇന ബാങ്കിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യും കോഴ്സിനായി ലഭ്യമാണ് അപ്പോൾ ടെസ്റ്റ് പേപ്പർ രൂപകൽപ്പന ചെയ്യാൻ ഒരു ഉപകരണം കൈവശം വയ്ക്കുന്നത് വളരെ എളുപ്പമാണ് അത് ഉപയോഗിച്ച് ഐറ്റം ബാങ്കിൽ നിന്ന് ആവശ്യമായ മാർക്കിന്റെ അസ്സസ്സ്മെന്റ് ഇനങ്ങൾ ആവശ്യമുള്ള ഇനങ്ങളിൽ ഒരുമിച്ച് ശേഖരിക്കാനും ഇൻസ്ട്രക്ടർ വ്യക്തമാക്കിയ ഘടന അനുസരിച്ച് ഒരു അസ്സസ്സ്മെന്റ് ഉപകരണം രചിക്കാനും കഴിയും അതിനാൽ ജോലി വളരെ ലളിതമാവുകയും അസ്സസ്സ്മെന്റ് ഉപകരണത്തിന്റെ ഗുണനിലവാരവും വളരെ മികച്ചതാവുകയും ചെയ്യുന്നു കാരണം ഇൻസ്ട്രക്ടർക്ക് ഒരു പാറ്റേൺ വ്യക്തമാക്കാൻ കഴിയും നമ്മൾ ഈ വിലയിരുത്തൽ ഉപകരണ പാറ്റേൺ പിന്നീട് ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യും അത്തരമൊരു ഇനം ബാങ്ക് ലഭ്യമാണെങ്കിൽ നമുക്ക് ഒരു ടെസ്റ്റ് പേപ്പർ സൃഷ്ടിക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം ടെസ്റ്റ് പേപ്പർ ഒന്നിലധികം ചോയ്സ് ഉള്ള ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ ഒന്നിലധികം തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുടെയോ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കേണ്ട ചോദ്യങ്ങളുടെയോ ഒരു ശേഖരമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൽഎംഎസിനൊപ്പം ലഭ്യമായ ഉപകരണം ഉപയോഗിച്ച് നിയന്ത്രിക്കാം അല്ലെങ്കിൽ ഒരാൾക്ക് ഓപ്പൺ സോഴ്സ് ടൂളുകളും ഉപയോഗിക്കാം വൈവിധ്യമാർന്ന അവ ഇന്ന് ന്യായമായും ലഭ്യമാണ് വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നതിനും എൽഎംഎസിന് കഴിയും അധ്യാപകന് ആവശ്യമായ ഫോർമാറ്റിൽ ഒരു സംഗ്രഹ റിപ്പോർട്ട് സൃഷ്ടിക്കുകയും വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത ഫീഡ്ബാക്ക് സൃഷ്ടിക്കുന്നതിന് സഹായിക്കുകയും ഇത് ചെയ്യുന്നു അതിനാൽടെസ്റ്റുകൾ ക്വിസ് അസൈൻമെന്റുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ സാങ്കേതികവിദ്യയുടെ ഉപയോഗം അസസ്മെന്റിനെ ആഴമേറിയതും അർത്ഥവത്തായതും വിദ്യാർത്ഥികൾക്ക് ആസ്വാദ്യകരമാക്കുന്നതിനും ഫാക്കൽറ്റിയുടെ ഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു സെമസ്റ്റർ അവസാന പരീക്ഷ നമ്മൾ പരിഗണിക്കുമ്പോൾ ചില പരിമിതികളുണ്ട് നിലവിൽ മിക്ക സർവകലാശാലകളും വിദ്യാർത്ഥികളുടെ എല്ലാ പ്രതികരണങ്ങളും ഒരൊറ്റ സ്ഥലത്ത് അല്ലെങ്കിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ശേഖരിക്കുന്നതിന് മാത്രമാണ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് അടിസ്ഥാനപരമായി ഉത്തരക്കടലാസുകൾ ശേഖരിക്കുകയും അവ സ്കാൻ ചെയ്യുകയും ഇലക്ട്രോണിക് പതിപ്പുകൾ മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിലേക്ക് കൈമാറുകയും ഇൻസ്ട്രക്ടർമാർ ഈ പതിപ്പുകൾ ഇലക്ട്രോണിക് രൂപത്തിൽ വിലയിരുത്തുകയും അവയുടെ വിലയിരുത്തലുകൾ വീണ്ടും സെൻട്രൽ സെർവറുകളിലേക്ക് തിരികെ നൽകുകയും അവസാനം മൊത്തം മൂല്യനിർണ്ണയം ഒരു ഉപകരണം ഉപയോഗിച്ചും നടത്തുന്നു പ്രധാനമായും വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ ശേഖരിക്കുന്നതിനും അവ ഇലക്ട്രോണിക് രൂപമാക്കി മാറ്റുന്നതിനും നിയുക്ത മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ മൂല്യനിർണ്ണയക്കാർക്ക് ലഭ്യമാക്കുന്നതിനും സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു SEE പേപ്പറിൽ ഒബ്ജക്റ്റീവ് ഇനങ്ങളെക്കുറിച്ചുള്ള ഒരു വിഭാഗം അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ഇനങ്ങളെക്കുറിച്ചുള്ള ഒരു വിഭാഗമുണ്ട് ചില സർവകലാശാലകൾ ഇത് ചെയ്യുന്നു കൂടാതെ കോളേജുകൾക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ സൌകര്യമുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങളുടെ പരിശോധനയും വിലയിരുത്തലും സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്താം ഇത് സർവകലാശാലയ്ക്കും കേന്ദ്രീകൃതമായി ചെയ്യാവുന്നതാണ് ഒബ്ജക്റ്റീവ് ഇനങ്ങൾ ലഭിച്ച ആദ്യ ഭാഗം ഇലക്ട്രോണിക് ആയി വിലയിരുത്താൻ കഴിയും ഇത് മൂല്യനിർണ്ണയ പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള പ്രയത്നത്തിന്റെ അളവ് ഗണ്യമായി ലഘൂകരിക്കുന്നു സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സാധ്യമാകുന്ന പോലെ സെമസ്റ്റർ അവസാന പരീക്ഷകളിൽ സിമുലേഷനുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് അവ അസ്സസ്സ്മെന്റ് സന്ദർഭത്തിൽ ഉൾപ്പെടുത്താം അടുത്ത പ്രധാന കാര്യം CO കൈവരിക്കാനുള്ള ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക എന്നതാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കോഴ്സ് ഔട്കമുകളുടെ രചന ഒരു ഘട്ടമാണ് പക്ഷേ ഓരോ സിഒയ്ക്കും നമ്മൾ ഒരു ടാർഗെറ്റ് കൈവരിക്കൽ നില നിശ്ചയിക്കേണ്ടതുണ്ട് കോഴ്സ് എടുത്ത ശേഷം ആ ഔട്കമിന്റെ യഥാർത്ഥ ലെവൽ എന്താണെന്ന് നിർണ്ണയിക്കേണ്ടതുണ്ട് തുടർന്ന് നിശ്ചിത ടാർഗെറ്റുകളും നേടിയ ലെവലുകളും അടിസ്ഥാനമാക്കി അടുത്ത തവണ ടാർഗെറ്റ് ലെവൽ വർദ്ധിപ്പിക്കണമോ അതോ നിശ്ചിത ടാർഗെറ്റ് വിദ്യാർത്ഥികൾ നേടിയിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് വിശകലനം നടത്തി അടുത്ത തവണ വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ ഉയർന്ന തലത്തിൽ ലക്ഷ്യങ്ങളോട് അടുത്ത് ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ഇൻസ്ട്രക്ഷനിൽ വരുത്തേണ്ടുന്ന മെച്ചപ്പെടുത്തൽ ഇൻസ്ട്രക്ടർ ആസൂത്രണം ചെയ്യണം അതിനാൽ ഇത് ക്വാളിറ്റി ലൂപ്പ് അടയ്ക്കുകയാണ് ഇത് ചെയ്യുന്നതിന് കോഴ്സ് ഔട്കമുകൾക്കായി നമ്മൾ അറ്റയ്ന്മെന്റ് ടാർഗെറ്റുകൾ വെക്കുന്നത് ആവശ്യമാണ് ഇത് മുൻകൂട്ടി ചെയ്യേണ്ടതാണ് ഇത് ഡിസൈൻ ഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് CO കൈവരിക്കുന്നതിന് നിരവധി രീതികൾ സാധ്യമാണ് ഇവിടെ നമ്മൾ മൂന്നോ നാലോ ഉദാഹരണങ്ങൾ മാത്രമേ ചർച്ചചെയ്യുകയുള്ളൂ പക്ഷേ ടാർഗെറ്റുകൾ ക്രമീകരിക്കുന്നതിന് ഇനിയും പല രീതികൾ സാധ്യമാണ് എന്നാൽ കൈവരിക്കാനുള്ള ലക്ഷ്യങ്ങൾ ക്രമീകരിക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് മൊത്തത്തിൽ ഒരു ഏകീകൃത മാർഗം സ്വീകരിക്കണം എന്നതാണ് പ്രധാനം അതിനാൽ അവ ഇനിപ്പറയുന്ന രീതിയിൽ ആകാം ആദ്യ ഉദാഹരണം ഒരു കോഴ്സിലെ മുഴുവൻ സിഒകൾക്കും ഒരേ ടാർഗെറ്റ് വക്കുന്നു ഉദാഹരണത്തിന് "ക്ലാസ് ശരാശരി മാർക്ക് 60 നേക്കാൾ വലുതോ തുല്യമോ ആയിരിക്കും" എന്നതാണ് ടാർഗെറ്റ് ഇപ്പോൾ ഈ ടാർഗെറ്റ് ഓരോ സിഒയ്ക്കും ഒരു പോലെയാണ് മാത്രമല്ല ഇത് ക്ലാസിലെ വിദ്യാർത്ഥികളുടെ ശരാശരി പ്രകടനം കണക്കാക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതാണ് വളരെ ലളിതമായ രീതി പക്ഷേ ശേഖരിച്ച വിവരങ്ങളും വളരെ പരിമിതമാണ് കൂടാതെ ക്വാളിറ്റി ലൂപ്പ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന് ചില ബലഹീനതകളുണ്ട് ഉദാഹരണം 2 ടാർഗെറ്റുകൾ എല്ലാ സിഒമാർക്കും തുല്യമാണ് പക്ഷേ വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ പ്രകടന നിലയെ അടിസ്ഥാനമാക്കി സജ്ജമാക്കിയിരിക്കുന്നു ഉദാഹരണത്തിന് 50 മാർക്കിൽ താഴെയുള്ള വിദ്യാർത്ഥികളുടെ ശതമാനം 10 ആയിരിക്കും 50 മാർക്കിന് കൂടുതലോ 65 ൽ താഴെയോ ആയ വിദ്യാർത്ഥികളുടെ ശതമാനം 40 ശതമാനവും 80 ൽ താഴെ 65 ൽ കൂടുതലുള്ള വിദ്യാർത്ഥികളുടെ 30 ശതമാനം 80 മാർക്കിൽ കൂടുതലോ തുല്യമോ ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ ശതമാനം 10 ശതമാനമായിരിക്കും എന്ന് പറയാൻ സാധിക്കും അതിനർത്ഥം ഇപ്പോൾ ക്ലാസ് വ്യത്യസ്ത പ്രകടന ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെടുന്നു മാത്രമല്ല നമ്മൾ വ്യത്യസ്ത പ്രകടന നിലകൾക്കായി ടാർഗെറ്റ് വയ്ക്കുകയും ചെയ്യുന്നു ഈ രീതി വിദ്യാർത്ഥികളെ വിവിധ വിഭാഗങ്ങളായി തരംതിരിക്കുമെങ്കിലും പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ആസൂത്രണം ചെയ്യുന്നതിന് ഇത് ഒരു സൂചനയും നൽകുന്നില്ല ഈ ടാർഗെറ്റുകൾ പൂർത്തിയാക്കാൻ നമ്മുക്ക് കഴിയുന്നില്ലെങ്കിൽ ഉദാഹരണത്തിന് 80 നെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ തുല്യമാകുന്ന വിദ്യാർത്ഥികളുടെ ശതമാനം 10 ൽ താഴെയാണ് പക്ഷേ 65 ൽ കൂടുതലും 80 ൽ താഴെയുമുള്ള വിദ്യാർത്ഥികളുടെ ശതമാനം 30 നെക്കാൾ വലുതാണ് ഇൻസ്ട്രക്ഷനൽ രീതികൾ മെച്ചപ്പെടുത്തുന്നതിന് ഇതുകൊണ്ട് ഒന്നും അർത്ഥമാകുന്നില്ല അത് വളരെ വ്യക്തമല്ല പക്ഷേ ഇത് വിദ്യാർത്ഥികളുടെ പ്രകടനത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ നൽകുന്നു എന്നാൽ അതിനനുസരിച്ച് നേട്ടത്തിന്റെ തോത് കണക്കുകൂട്ടുന്നതും ഈ കേസിൽ കുറച്ചുകൂടി പ്രയത്നം ഉൾപ്പെടുന്നു മറ്റൊരു ഉദാഹരണം ഒരു കോഴ്സിന്റെ ഓരോ സിഒയ്ക്കും വിവിധ ഗ്രൂപ്പുകൾക്കും പ്രത്യേകമായി ടാർഗെറ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നു പട്ടികയിൽ കാണുന്നത് പോലെ ഓരോ സിഒയും വെവ്വേറെ പരിഗണിക്കും കൂടാതെ ഓരോ സിഒയ്ക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ പ്രകടനത്തിനായി നമ്മൾ വ്യത്യസ്ത ടാർഗെറ്റുകൾ സജ്ജമാക്കുന്നു ഉദാഹരണത്തിന് 6 ഔട്കമുകളുണ്ടെന്ന് കരുതുക 50 മാർക്കിൽ താഴെയുള്ള വിദ്യാർത്ഥികളുടെ ശതമാനത്തിന്റെ വ്യത്യസ്ത ടാർഗെറ്റ് ലെവലുകൾ നമ്മൾ സജ്ജമാക്കുന്നു 50 ശതമാനത്തിൽ താഴെയുള്ള വിദ്യാർത്ഥികളുടെ ശതമാനം എന്ന ടാർഗറ്റ് CO1 ന് 10 ശതമാനമാണ് പക്ഷേ ഇത് CO2 ന് 20 ആണ് CO3 ന് 20 ഉം CO4 ന് 10 ഉം CO5 ന് 20 ഉം CO6 ന് 20 ഉം ആണ് ഇത് വിശദമായ ഒന്നാണ് ആസൂത്രിതമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാത്തപ്പോൾ നേട്ടങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇത് ഉപയോഗിക്കാം എന്നാൽ ഇത് വളരെ സങ്കീർണ്ണമാണ് മാത്രമല്ല ഈ പ്രത്യേക രീതിയിൽ ഈ നേട്ടങ്ങളുടെ അളവ് കണക്കാക്കാൻ വളരെയധികം പരിശ്രമിക്കേണ്ടിവരും കോഴ്സ് ഫലങ്ങൾക്കായി ടാർഗെറ്റുകൾ സജ്ജീകരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം ഒരു കോഴ്സിന്റെ ഓരോ സിഒയ്ക്കും വെവ്വേറെ ടാർഗെറ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് ക്ലാസ് ശരാശരി ടാർഗെറ്റ് ആയി സെറ്റു ചെയ്യുന്നു ഓരോ COക്കുമുള്ള ടാർഗറ്റ് CO1 70 ശതമാനവും CO2 80 ശതമാനവും CO3 75 ശതമാനവും CO4 65 ശതമാനവും CO5 70 ശതമാനവും CO6 80 ശതമാനവുമാണ് സിഒയുടെ സ്വഭാവം നിർദ്ദിഷ്ട സിഒയുടെ ഇൻസ്ട്രക്ടർ മനസ്സിലാക്കിയ സങ്കീർണ്ണത വിദ്യാർത്ഥികളുടെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ടറുടെ അനുമാനങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ടാർഗറ്റ് നിർണ്ണയിക്കാൻ ഇത് ഇൻസ്ട്രക്ടറെ അനുവദിക്കുന്നു ഇവയെല്ലാം അടിസ്ഥാനമാക്കി വിവിധ തലങ്ങളിൽ സിഒകൾക്ക് ടാർഗെറ്റ് സജ്ജമാക്കാൻ കഴിയും ഇത് വിദ്യാർത്ഥികൾക്കിടയിലെ പ്രകടനത്തിന്റെ വ്യത്യസ്തതയെ നേരിട്ട് സൂചിപ്പിക്കുന്നില്ല അതായത് CO1 നുള്ളിൽ വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത കൂട്ടായ്മകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ഉദാഹരണത്തിൽ കണ്ടതുപോലെ വ്യത്യസ്ത പ്രകടന റേഞ്ചറുകൾ എങ്ങനെ വിതരണം ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ അത്തരം വിവരങ്ങൾ ലഭ്യമല്ല നിർദ്ദിഷ്ട സിഒകളുടെ ബുദ്ധിമുട്ട് കണ്ടെത്തുന്നതിന്റെ ഗുണം ഇതിന് ഉണ്ട് ടാർഗെറ്റിനേക്കാൾ ഗണ്യമായി കുറവുള്ളതോ അല്ലെങ്കിൽ കൈവരിക്കാനുള്ള ലെവലുകൾ ടാർഗെറ്റിനോട് അടുക്കുന്നതോ ടാർഗെറ്റുകൾ കവിയുന്നതോ ആയ സിഒകൾ ഏതാണ് അടുത്ത തവണ നമ്മൾ കോഴ്സ് നൽകുമ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സിഒകളെക്കുറിച്ചുള്ള ഒരു സൂചന ഇൻസ്ട്രക്ടർക്ക് ഇത് നൽകും കൈവരിക്കാനുള്ള ലെവലുകളെക്കാൾ ഗണ്യമായി കുറവുള്ള സിഒകൾ അതായത് പ്രകടന വിടവുകൾ ഗണ്യമായിരിക്കുന്നിടത്ത് അടുത്ത തവണ കോഴ്സ് നൽകുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ക്ലാസ് ശരാശരി മാത്രമുള്ളതിനാൽ നേട്ടത്തിന്റെ അളവ് കണക്കാക്കുന്നത് വളരെ എളുപ്പമാണ് നമ്മൾ കണ്ടിന്യൂസ് ഇന്റെർണൽ ഇവാല്യുവേഷൻ അല്ലെങ്കിൽ സിഐഇ സെമസ്റ്റർ എൻഡ് പരീക്ഷ അല്ലെങ്കിൽ SEE എന്നിവയ്ക്കിടെ വിദ്യാർത്ഥികളുടെ ശരാശരി പ്രകടനം എടുക്കുകയും സർവകലാശാല ചട്ടങ്ങളെ അടിസ്ഥാനമാക്കി ഉചിതമായി സംയോജിപ്പിക്കുകയും ചെയ്ത് വേണം ക്ലാസ് ശരാശരി നിർണ്ണയിക്കാൻ നേട്ടത്തിന്റെ ലെവൽ കണക്കുകൂട്ടുന്നതും താരതമ്യേന ലളിതമാണ് അടുത്ത തവണ കോഴ്സ് ഡെലിവർ ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ടറിൽ നിന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള കോഴ്സ് ഔട്കമുകൾ ഏതെല്ലാമാണെന്ന് ഇത് നമുക്ക് ഒരു ആശയം നൽകുന്നു അതിനാൽ ലക്ഷ്യം സജ്ജീകരിക്കുന്നതിനുള്ള ഉപയോഗപ്രദവും ലളിതവുമായ മാർഗ്ഗങ്ങളിൽ ഒന്നാണിത് എന്നിരുന്നാലും മറ്റ് രീതികൾ എല്ലാ സിഒകൾക്കും ഒരേ പോലെയുള്ള എന്നാൽ വ്യത്യസ്ത രീതിയിലുള്ള വിദ്യാർത്ഥികളുടെ ടാർഗെറ്റുകൾ വെവ്വേറെ സജ്ജീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ടാർഗെറ്റ് ഗ്രൂപ്പ് തിരിച്ചുള്ളവ ക്രമീകരിക്കുന്നതിനോ ചെയ്യുന്ന മറ്റ് രീതികൾ തിരഞ്ഞെടുക്കാൻ ഇൻസ്ട്രക്ടർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നിരുന്നാലും എല്ലാ സിഒകൾക്കും ഒരേ ടാർഗെറ്റ് നിർണ്ണയിക്കുന്ന ആദ്യ രീതി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിൽ ശരിക്കും പ്രയോജനപ്പെടുന്നില്ല അതിനാൽ ഈ രീതികളിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ തിരഞ്ഞെടുക്കാം എന്നിരുന്നാലും നേട്ടം കണക്കാക്കുന്നതിലെ ലാളിത്യവും അതേപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നിർദ്ദിഷ്ട സിഒകളെക്കുറിച്ച് മതിയായ വിവരങ്ങൾ നൽകുന്നതിലും നാലാമത്തെ രീതിക്ക് മറ്റുള്ളവയേക്കാൾ നിരവധി ഗുണങ്ങളുണ്ട് ഇപ്പോൾ ടാർഗെറ്റുകൾ ക്രമീകരിക്കുന്നതിനുള്ള നിരവധി വകഭേദങ്ങൾ നടപ്പിലാക്കാൻ കഴിയും ഒരു ലളിതമായ ഉദാഹരണം 60 ശതമാനത്തിൽ കൂടുതൽ സ്കോർ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ക്ലാസ് ശക്തിയുടെ 70 ശതമാനത്തിലധികം ആയിരിക്കും എന്ന് എനിക്ക് സജ്ജമാക്കാൻ കഴിയും 60 ശതമാനം കാരണം ഇത് ഫസ്റ്റ് ക്ലാസ് പരിധിയാണ് ചില സ്ഥാപനങ്ങൾ ഇതുപോലുള്ള ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിനാൽ ടാർഗെറ്റുകൾ സജ്ജീകരിക്കുന്നതിന് ഇനിയും നിരവധി വകഭേദങ്ങൾ ഉണ്ട് പക്ഷേ നേട്ടം കണക്കുകൂട്ടുന്നതിൻറെ എളുപ്പത്തെ കണക്കിലെടുത്ത് ടാർഗെറ്റ് തിരഞ്ഞെടുക്കണം നിങ്ങൾ ഒരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽപ്പോലും സിഒ നേട്ടത്തിന്റെ ഗുണനിലവാര ലൂപ്പ് ഫലപ്രദമായി അടയ്ക്കുന്നതിന് ആവശ്യമായ നേട്ടവും വിവരങ്ങളുടെ അളവും കണക്കുകൂട്ടുന്നത് ലളിതമായിരിക്കണം അതായത് നേട്ടത്തിന്റെ അളവ് കണ്ടെത്തുക ടാർഗെറ്റ് ലെവലുമായി താരതമ്യപ്പെടുത്തുക കണ്ടെത്തിയ പ്രകടന വിടവുകളെ അടിസ്ഥാനമാക്കി അടുത്ത തവണ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ നേട്ടത്തിന്റെ തോത് ഉയർത്താനുള്ള മെച്ചപ്പെടുത്തൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അതിനാൽ CO കൈവരിക്കുന്നതിനുള്ള ഗുണനിലവാര ലൂപ്പ് ഫലപ്രദമായി അടയ്ക്കുന്നതിന് ആവശ്യമായ വിവരങ്ങളുടെ അളവ് ഇത് രണ്ടിനെയും അടിസ്ഥാനമാക്കി ടാർഗെറ്സ് തിരഞ്ഞെടുക്കണം എല്ലാ പ്രോഗ്രാമുകളിലെയും എല്ലാ കോഴ്സുകളിലേക്കും ടാർഗെറ്റുകൾ ക്രമീകരിക്കുന്നതിന് സ്ഥാപനം ഒരു രീതി ഉപയോഗിക്കണം എന്നതാണ് സിഒയുടെ കൈവരിക്കൽ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അല്ലെങ്കിൽ അത് ശരിക്കും കുഴപ്പത്തിലാകും അതിനാൽ സ്ഥാപനത്തിന് ചില മസ്തിഷ്കപ്രക്രിയകൾ നടത്താനും എല്ലാ പ്രോഗ്രാമുകളിലെയും എല്ലാ കോഴ്സുകളെയും ലക്ഷ്യം വയ്ക്കുന്നതിനുള്ള ഒരു രീതി തിരഞ്ഞെടുക്കാനും അത് ഗുണനിലവാരം കൈവരിക്കുന്നതിനുള്ള ഒരു സൌകര്യപ്രദമായ മാർഗമായിരിക്കും നിങ്ങൾ പഠിപ്പിച്ച കോഴ്സുകളിലെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉപയോഗിച്ച നിർദ്ദിഷ്ട സാങ്കേതികവിദ്യകൾ പട്ടികപ്പെടുത്തുക CO കൈവരിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാൻ ഇവിടെ നിർദ്ദേശിച്ച രീതികൾ ഒഴികെയുള്ള മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക iisctagmail comൽ വ്യായാമങ്ങളുടെ ഫലങ്ങൾ പങ്കിട്ടതിന് നന്ദി അടുത്ത യൂണിറ്റിൽ ഒരു കോഴ്സിനായുള്ള അസ്സസ്സ്മെന്റ് പാറ്റേണും അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളും രൂപകൽപ്പന ചെയ്യുന്ന പ്രക്രിയ നമ്മൾ മനസിലാക്കും നന്ദി അടുത്ത യൂണിറ്റിൽ നമ്മൾ വീണ്ടും കാണും